ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ശരിയാക്കുന്നതിനുപകരം സ്ഥിരമായ ഡ്രെയിൻ കറന്റിൽ ഒരു ട്രാൻസിസ്റ്ററിനെ ബയാസ് ചെയ്യാൻ നമ്മൾ നിരവധി ബയാസ് സർക്യൂട്ടുകൾ പഠിച്ചു അവയെല്ലാം ഇവിടെ കാണിച്ചിരിക്കുന്നു നിങ്ങൾക്ക് കറന്റ് എവിടുന്ന് സെൻസ് ചെയ്യാം ഫീഡ്ബാക്ക് എങ്ങനെ കൊടുക്കാം എന്നതിന്റെ അടിസ്ഥാനത്തിൽ നാല് വ്യത്യസ്ത തരം സർക്യൂട്ടുകൾ ലഭിക്കും ഇപ്പോൾ ഈ സർക്യൂട്ടുകൾ ആവശ്യമുള്ള കറന്റ് സോഴ്സ് ഉപയോഗിക്കുന്നു ഇപ്പോൾ തീർച്ചയായും കറന്റ് മിറർ ഉപയോഗിച്ച് ഒരൊറ്റ കറന്റ് സോഴ്സിൽ നിന്ന് നമ്മൾക്ക് നിരവധി കറന്റ് സോഴ്സ് സൃഷ്ടിക്കാൻ കഴിയും അതിനാൽ ഇത് സാധ്യമാണ് എന്നാൽ നിങ്ങൾക്ക് ഒരു സംയോജിത സർക്യൂട്ട് ഉള്ളപ്പോൾ ഈ കറന്റ് സോഴ്സ് സാധാരണയായി നേടാൻ എളുപ്പമാണ് സംയോജിത സർക്യൂട്ടുകൾക്കും വിഭിന്ന ഘടക സർക്യൂട്ടുകൾക്കും വില അല്പം വ്യത്യസ്തമാണ് നിങ്ങൾക്ക് ഒരു സംയോജിത സർക്യൂട്ട് ഉള്ളപ്പോൾ ഘടകങ്ങളുടെ എണ്ണം പ്രശ്നമല്ല ഇത് മൊത്തം ഏരിയയാണ് നിങ്ങൾ ഒരു ട്രാൻസിസ്റ്ററോ റെസിസ്റ്ററോ ഉപയോഗിച്ചാലും ചെലവ് കൂടുതലോ കുറവോ ആയിരിക്കും കാരണം ഇത് അടിസ്ഥാനപരമായി ഘടകം ഉൾക്കൊള്ളുന്ന ഏരിയ അടിസ്ഥാനമാക്കിയുള്ളതാണ് വാസ്തവത്തിൽ ചില പ്രക്രിയകളിൽ ഒരു റെസിസ്റ്റർ ഒരു ട്രാൻസിസ്റ്ററിനേക്കാൾ ചെലവേറിയതായിരിക്കാം അല്ലെങ്കിൽ കപ്പാസിറ്റർ ഒരു ട്രാൻസിസ്റ്ററിനേക്കാൾ ചെലവേറിയതാണ് ഇപ്പോൾ നിങ്ങൾക്ക് പ്രത്യേക ഘടക സർക്യൂട്ടുകൾ ഉള്ളപ്പോൾ ഈ ഘടകങ്ങൾ വാങ്ങുകയും അവയ്ക്ക് ചുറ്റും സർക്യൂട്ടുകൾ നിർമ്മിക്കുകയും ചെയ്യുമ്പോൾ ഇത് സാധാരണയായി സംഭവിക്കില്ല റെസിസ്റ്ററുകൾ കപ്പാസിറ്ററുകൾ എന്നിവ പോലുള്ള നിഷ്ക്രിയ ഘടകങ്ങൾ വളരെ വിലകുറഞ്ഞവയാണ് അതേസമയം ട്രാൻസിസ്റ്ററുകൾ കൂടുതൽ ചെലവേറിയതാണ് അതിനാൽ ഈ കറന്റ് സോഴ്സ് നിർമ്മിക്കാൻ നിങ്ങൾ മറ്റൊരു ട്രാൻസിസ്റ്റർ ഉപയോഗിക്കില്ല കറന്റ് സോഴ്സ് മറ്റും മനസിലാക്കാൻ നിങ്ങൾക്ക് മതിയായ പൊരുത്തപ്പെടുന്ന ട്രാൻസിസ്റ്റർ ലഭിച്ചേക്കില്ല പ്രത്യേകിച്ചും വിഭിന്ന ഘടക സർക്യൂട്ടുകളിൽ ചിലപ്പോൾ സംയോജിത സർക്യൂട്ടുകളിൽ ബയസിനായി ഇതുപോലുള്ള കറന്റ് സോഴ്സ് ഉപയോഗിക്കാതിരിക്കാൻ ചില കാരണങ്ങൾ ഉണ്ട് അതിനാൽ നമുക്ക് മറ്റെന്താണ് ചെയ്യാൻ കഴിയുകയെന്ന് നോക്കാം ഇതിലൊന്ന് ഞാൻ ഉദാഹരണമായി എടുക്കും എന്നാൽ അതേ തത്ത്വം മറ്റെവിടെയും പ്രവർത്തിക്കുന്നു ചിത്രീകരണത്തിനായി ഞാൻ കുറച്ച് സംഖ്യാ മൂല്യങ്ങളായ nCox 100 µA V2 ത്രെഷോൾഡ് വോൾട്ടേജ് 1 V എന്നിവ എടുക്കാം ഈ കറന്റ് 200 µA ആണെന്ന് ഞാൻ അനുമാനിക്കാം നിങ്ങൾ കണക്കുകൂട്ടിയാൽ VGS 3 V ആയി വരും ഈ കറന്റ് 200 µA 3 V VGS നു ആനുപാതികമായിട്ടുള്ളതാണ് വിവരിക്കുന്നതിനായി സപ്ലൈ വോൾട്ടേജ് 10 V ആയി എടുക്കാം ഇപ്പോൾ ഈ കറന്റ് സോഴ്സിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതാണ് ചോദ്യം ID0 അത് എങ്ങനെ ചെയ്യും ഒന്നാമതായി ഈ കറന്റ് സോഴ്സ് ഇത് 200 µA ന്റെ ഒരു കറന്റ് വഹിക്കുന്നു ഇതിന് ഈ ദിശയിൽ 7 V വോൾട്ടേജ് ഉണ്ട് ഈ കറന്റ് സോഴ്സും ഈ വോൾട്ടേജ് സോഴ്സും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഈ വോൾട്ടേജ് സോഴ്സ് 200 µA വിതരണം ചെയ്യുന്നു മറ്റ് സർക്യൂട്ടുകൾ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവ ചില I1 കറന്റ് എടുക്കുകയും അത് I1 വിതരണം ചെയ്യുകയും ചെയ്യും ഈ കറന്റ് സോഴ്സ് യഥാർത്ഥത്തിൽ പവർ ഇല്ലാതാക്കുന്നു എന്നതാണ് കാര്യം രണ്ട് ടെർമിനൽ മൂലകത്തിൽ പവർ ഡിസിപ്പേഷൻ എങ്ങനെ കണക്കാക്കാമെന്ന് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ പാസ്സീവ് സൈൻ കൺവെൻഷൻ അനുസരിച്ച് വോൾട്ടേജും കറന്റും നിങ്ങൾ പരിഗണിക്കുന്നു അതായത് ചില ടെർമിനലിൽ പോസിറ്റീവ് ഉപയോഗിച്ച് വോൾട്ടേജ് നിർവചിച്ചിട്ടുണ്ടെങ്കിൽ കറന്റ് ആ ടെർമിനലിലേക്ക് പോകണം അപ്പോൾ പവർ ഡിസിപേറ്റ് ചെയ്യുന്നത് V I ആണ് ഇത് ഉൽപാദിപ്പിക്കുന്ന പവർ V I നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ ഇവിടെ ഈ കറന്റ് സോഴ്സ് 1 4 mW പവർ ഡിസിപേറ്റ് ചെയ്യുന്നത് കാണാം അതേസമയം ഈ സോഴ്സ് 10 V 200 µA 2 mW ഉൽപാദിപ്പിക്കുന്നു I1 പൂജ്യമാണെന്ന് കരുതുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഈ വോൾട്ടേജ് സോഴ്സ് മാറ്റിസ്ഥാപിക്കാൻ കഴിയില്ല ഇതാണ് ഊർജ്ജ സ്രോതസ്സ് അതേസമയം ഈ കറന്റ് സോഴ്സ് ഊർജ്ജ സ്രോതസ്സായിരിക്കാമെങ്കിലും ഈ പ്രത്യേക സർക്യൂട്ടിൽ ഉടനീളമുള്ള വോൾട്ടേജ് അത് യഥാർത്ഥത്തിൽ പവർ ഡിസിപേറ്റ് ചെയ്യുന്നു ഇത് ഒരു ഡിസിപേറ്റ് ഘടകം അതിനാൽ ഇത് മറ്റൊരു ഡിസിപേറ്റ് ഘടകം ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാം കൂടാതെ അതിനു അനിയോജ്യമായത് ഒരു റെസിസ്റ്ററാണ് അതിനാൽ ഇപ്പോൾ നമുക്ക് ഈ റെസിസ്റ്റർ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാം ബേസിക് ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിൽ നിന്നുo നിങ്ങൾ സബ്സ്റ്റിട്യൂഷൻ തിയറം ഓർക്കുന്നുവെന്ന് എനിക്ക് ഉറപ്പുണ്ട് സബ്സ്റ്റിട്യൂഷൻ തിയറം പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് റെസിസ്റ്ററുള്ള ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ അതിന് കുറുകെ ഒരു വോൾട്ടേജ് VR ഉണ്ട് അതിലൂടെ ഒരു കറന്റ് IR ഉണ്ട് തീർച്ചയായും ഒഹ്മ്സ് ലോ Ohms law പ്രകാരം R VR ബൈ IR ന് തുല്യമായിരിക്കും ഈ റെസിസ്റ്റർ VR മൂല്യമുള്ള വോൾട്ടേജ് സോഴ്സ് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാം അല്ലെങ്കിൽ IR മൂല്യമുള്ള കറന്റ് സോഴ്സ് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാം സർക്യൂട്ടിലെ നോഡ് വോൾട്ടേജുകളോ വൈദ്യുത പ്രവാഹങ്ങളോ മാറ്റാതെ തന്നെ ചെയ്യാം നിങ്ങൾ ഇത് ഓർമിക്കുന്നില്ലെങ്കിൽ ബേസിക് ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിലേക്ക് തിരികെ പോയി ഈ തിയറത്തെക്കുറിച്ച് കണ്ടെത്തുക ഇതിനെ സബ്സ്റ്റിട്യൂഷൻ തിയറം എന്ന് വിളിക്കുന്നു അതിനാൽ ഒരു റെസിസ്റ്റർ മറ്റൊരു ഘാടകവുമായി മാറ്റിസ്ഥാപിക്കാൻ കഴിയും അഥവാ അതിൽ കൂടി അതേ വോൾട്ടേജും കറന്റും ഒഴുകുകയാണെങ്കിൽ ഇത് പൊതുവായ സബ്സ്റ്റിട്യൂഷനല്ല ഇത് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന സോഴ്സുകളുടെ പ്രത്യേക മൂല്യങ്ങൾക്ക് മാത്രമുള്ളതാണ് നിങ്ങൾക്ക് ചില വോൾട്ടേജ് സോഴ്സ് കറന്റ് സോഴ്സ് എന്നിവ ഉള്ള ഒരു സർക്യൂട്ട് ഉണ്ട് അവയ്ക്ക് ചില പ്രത്യേക മൂല്യങ്ങളുണ്ട് ആ പ്രത്യേക മൂല്യങ്ങൾക്ക് മാത്രമേ നിങ്ങൾക്ക് ഒരു റെസിസ്റ്ററിനെ ഒരു വോൾട്ടേജ് സോഴ്സ് അല്ലെങ്കിൽ കറന്റ് സോഴ്സ് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാൻ കഴിയൂ ഇപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു വഴിയിലൂടെ പോകാമെന്ന് ഇത് കാണിക്കുന്നു നിങ്ങൾക്ക് കുറച്ച് വോൾട്ടേജ് സോഴ്സ് അല്ലെങ്കിൽ കറന്റ് സോഴ്സ് ഉള്ള ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ ഒരു റെസിസ്റ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് വോൾട്ടേജ് അല്ലെങ്കിൽ കറന്റ് സോഴ്സ് മാറ്റിസ്ഥാപിക്കാം പക്ഷെ ഇവിടെ സോഴ്സ് പവർ കുറയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം അല്ലാത്തപക്ഷം നിങ്ങൾ ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കേണ്ടതുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് ചില സിംഗുലർ കണ്ടീഷൻസ് ലഭിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ കറന്റ് സോഴ്സ് പവർ ഡിസിപേറ്റ് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു റെസിസ്റ്റർ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാം ഏത് റെസിസ്റ്ററാണ് നിങ്ങൾ പകരം വയ്ക്കേണ്ടത് വോൾട്ടേജും അതിലൂടെയുള്ള വൈദ്യുതധാരയും യഥാർത്ഥ സർക്യൂട്ടിലെ പോലെ തന്നെയായിരിക്കണം ഉദാഹരണത്തിന് ഈ സാഹചര്യത്തിൽ ഈ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ ഒരു പ്രത്യേക ഓപ്പറേറ്റിംഗ് പോയിന്റിലുള്ള സോഴ്സ് വോൾട്ടേജുകളുടെ ഒരു പ്രത്യേക മൂല്യത്തിന് മാത്രമെ ഈ സബ്സ്റ്റിട്യൂഷൻ തിയറം ശരിയാവുള്ളു എന്ന് ഓർമ്മിക്കുക അതിനാൽ ഈ ഘട്ടത്തിൽ നമുക്ക് അതിലൂടെ 7V ഉം അതിലൂടെ 200 µA ഉം ഉണ്ട് കൂടാതെ അതിനെ ഒരു റെസിസ്റ്റർ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു കൂടാതെ റെസിസ്റ്ററിന് 7V ഉം അതിലൂടെ 200 µA ഉം ഉണ്ടായിരിക്കണം എന്നാൽ തീർച്ചയായും റെസിസ്റ്ററിനെ നിയന്ത്രിക്കുന്നത് ഒഹ്മ്സ് ലോ ആണ് അതിനാൽ ഒരു റെസിസ്റ്ററിന് 7 V ഉം അതിലൂടെ 200 µA ഉം ഉണ്ടായിരിക്കണമെങ്കിൽ റെസിസ്റ്റൻസിന്റെ മൂല്യം 7V ബൈ 200 µA കൊണ്ട് ഹരിക്കേണ്ടതാണ് അതായത് 35 kΩ അതിനാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ കറന്റ് സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്നതാണ് 35 kΩ ന്റെ റെസിസ്റ്റൻസ് ഉപയോഗിച്ച് ഇത് മാറ്റിസ്ഥാപിക്കുക നിങ്ങൾക്ക് അതേ കറന്റ് ലഭിക്കും ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒരു വിശകലന പ്രശ്നമായി നൽകിയിട്ടുണ്ടെങ്കിൽ വാസ്തവത്തിൽ അത് പരിഹരിക്കാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും നിങ്ങൾ ഈ സർക്യൂട്ട് എടുക്കുകയേ വേണ്ടൂ കറന്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെന്ന് നടിക്കുക നിങ്ങൾ ഒരു ക്വാഡ്രാറ്റിക് സമവാക്യം പരിഹരിക്കേണ്ടതുണ്ട് അത് വളരെ എളുപ്പത്തിൽ ലഭിക്കും അത് 200 µA ആയിരിക്കും എന്ന് നിങ്ങൾ കാണും അതിനാൽ നിങ്ങൾക്ക് ഇവിടെ 200 µA കറന്റ് സോഴ്സ് അല്ലെങ്കിൽ 35 kΩ റെസിസ്റ്ററോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതേ കറന്റ് ലഭിക്കും അതിനാൽ ഇത് പല തവണ ഉപയോഗിക്കുന്നു ഈ പ്രത്യേക സന്ദർഭത്തിൽ കറന്റ് സോഴ്സ് റെസിസ്റ്ററുകൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാൻ ഞങ്ങൾ നോക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഒരു സർക്യൂട്ട് ഉണ്ടെന്നും നിങ്ങൾക്ക് I0 മൂല്യത്തിന്റെ ഒരു കറന്റ് സോഴ്സ് ഉണ്ടെന്നും അതിലൂടെയുള്ള വോൾട്ടേജ് Vx ആണെന്നും പറയാം നമുക്ക് പറയാം Vx 0 ഈ സാഹചര്യത്തിൽ മാത്രമാണ് ഇത് പവർ ഡിസിപേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് ഒരു റെസിസ്റ്റർ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് കറന്റ് സോഴ്സ് ഒരു റെസിസ്റ്റർ Rx ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാം തീർച്ചയായും Rx ന്റെ മൂല്യം Vx I0 കൊണ്ട് ഹരിക്കേണ്ടതാണ് കൂടാതെ സർക്യൂട്ടിലെ വോൾട്ടേജുകളും വൈദ്യുത പ്രവാഹങ്ങളുമായ സർക്യൂട്ടിലെ വ്യവസ്ഥകൾ അതേപടി തുടരും ഏത് സർക്യൂട്ടിനും ഇത് ചെയ്യാൻ കഴിയും വിതരണത്തിന്റെ പ്രത്യേക മൂല്യങ്ങൾക്കായി നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത എല്ലാ ബയാസിംഗ് സർക്യൂട്ടും നിങ്ങൾ എല്ലാ സംഖ്യാ മൂല്യങ്ങൾ അറിയേണ്ടതുണ്ട് തുടർന്ന് ആ ബയാസിംഗ് സർക്യൂട്ടിലെ കറന്റ് സോഴ്സ് റെസിസ്റ്റർ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാം ബയാസിംഗ് അവസ്ഥ അതേപടി തുടരും ഇപ്പോൾ ഒരു റെസിസ്റ്റർ കറന്റ് സോഴ്സ് പോലെ മികച്ചതാണെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കറന്റ് സോഴ്സ് ഉപയോഗിക്കാത്തതെന്താണ് ഇപ്പോൾ എല്ലാം സമാനമല്ല ഉദാഹരണത്തിന് ഞാൻ വീണ്ടും സർക്യൂട്ട് എടുക്കാം അതിനാൽ എനിക്ക് 10 V സോഴ്സ് 35 kΩ റെസിസ്റ്ററും ഉണ്ടായിരുന്നു 200 µA കറന്റ് സോഴ്സ് ഉള്ള എന്റെ യഥാർത്ഥ സർക്യൂട്ട് ഉണ്ട് അതിനാൽ ഇപ്പോൾ ഞാൻ ഇതിനെ M1 M2 എന്ന് വിളിക്കട്ടെ കോൺസ്റ്റന്റ് കറന്റ് ബയാസിംഗ് ഉപയോഗിക്കുന്നതിനുള്ള മുഴുവൻ ആശയവും ഓർക്കുക ട്രാൻസിസ്റ്റർ ട്രാൻസ്കണ്ടക്റ്റൻസിന്റെ സെൻസിറ്റിവിറ്റി ട്രാൻസിസ്റ്ററിന്റെ പാരാമീറ്ററുകളായ ത്രെഷോൾഡ് വോൾട്ടേജ് കറന്റ് ഫാക്ടർ എന്നിവ കുറയ്ക്കുക എന്നതാണ് ഇപ്പോൾ ഈ സർക്യൂട്ടിനും ആ സർക്യൂട്ടിനും ആ സെൻസിറ്റിവിറ്റി വ്യത്യസ്തമായിരിക്കും അതിനാൽ M2 ന്റെ ത്രെഷോൾഡ് വോൾട്ടേജ് ഒരു പരിധിവരെ മാറുന്നുവെന്ന് പറയാം അതിലൂടെയുള്ള കറന്റ് ഇപ്പോഴും 200 µA ആയിരിക്കും അതിനാൽ M2 ന്റെ ട്രാൻസ്കണ്ടക്റ്റൻസ് ഒട്ടും മാറില്ല പരിഗണിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഉദാഹരണമാണിത് അതിനാൽ VT വർദ്ധിക്കുന്നുവെന്ന് നമുക്ക് പറയാം M2 ന് 200 µA കറന്റും gm 200 µS ഉം ആണ് അടിസ്ഥാനപരമായി മാറ്റങ്ങളൊന്നുമില്ല ഈ സാഹചര്യത്തിൽ ത്രെഷോൾഡ് വോൾട്ടേജ് വർദ്ധിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള കറന്റ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ച മുമ്പത്തെ ഉദാഹരണം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കറന്റ് മാറുമെന്ന് നിങ്ങൾ കാണും ID യഥാർത്ഥത്തിൽ ചെറുതായി കുറയ്ക്കുകയും gm കുറയ്ക്കുകയും ചെയ്യും സ്ഥിരമായ VGS ബയാസിംഗ് ഇത് ഇപ്പോഴും മികച്ചതായിരിക്കാം പക്ഷേ ഇത് ഒരു യഥാർത്ഥ കറന്റ് സോഴ്സ് ബയാസിംഗ് പോലെ നല്ലതല്ല അതിനാൽ റെസിസ്റ്റർ ശരിക്കും ഒരു ദരിദ്രന്റെ കറന്റ് സോഴ്സ് ആണ് പക്ഷേ ചിലപ്പോൾ സൌകര്യാർത്ഥം നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം തുല്യമായ പ്രതിരോധം നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നതുപോലെ കറന്റ് സോഴ്സ്ന്റെ ഇൻക്രെമെന്റൽ റെസിസ്റ്റൻസ് അനന്തമാണ് അതിനാൽ ഈ റെസിസ്റ്റൻസ്ന്റെ മൂല്യം എത്രയും വലുതാകുന്നു അത്രയും കൂടുതൽ അടുത്ത് കറന്റ് സോഴ്സ് കണക്കാക്കുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്കറിയാം തെവെനിൻ നോർട്ടൺ ഇക്വിവാലെന്റിൽ നിന്നും നിങ്ങൾക്ക് ഒരു വലിയ വോൾട്ടേജും അതിനൊപ്പം ഒരു വലിയ റെസിസ്റ്റൻസും ഉണ്ടെങ്കിൽ അത് ചെറിയ ലോഡ് റെസിസ്റ്റൻസിന് കറന്റ് സോഴ്സ് പോലെ കൂടുതലോ കുറവോ ആയി പ്രവർത്തിക്കുന്നു അതിനാൽ അതേ കാര്യം ഇവിടെ പ്രവർത്തിക്കുന്നു ഈ റെസിസ്റ്റർ വളരെ വലുതായിരിക്കുകയും ഈ വോൾട്ടേജ് വളരെ വലുതാണെങ്കിൽ അത് കറന്റ് സോഴ്സ് പോലെ പെരുമാറുകയും ചെയ്യും അതിനാൽ ഇത് ഒരു വ്യത്യാസമാണ് നിങ്ങൾ ഒരു റെസിസ്റ്റർ ഉപയോഗിക്കുമ്പോൾ സെൻസിറ്റിവിറ്റി യഥാർത്ഥത്തിൽ വഷളാകുന്നു മാത്രമല്ല മറ്റെന്തെങ്കിലും അധിക സെൻസിറ്റിവിറ്റിയുള്ളതുമുണ്ട് നിങ്ങൾ സപ്ലൈ വോൾട്ടേജ് 10v മാറ്റുകയാണെങ്കിൽ M2 ന് എന്ത് സംഭവിക്കും ഒന്നും സംഭവിക്കില്ല കാരണം അത് ആ വോൾട്ടേജിലെ മാറ്റം പോലും കാണുന്നില്ല ഈ മാറ്റങ്ങളെല്ലാം ഈ 200 µA കറന്റ് സോഴ്സിൽ ദൃശ്യമാകും അതിനാൽ M2 ന്റെ കറന്റ് അല്ലെങ്കിൽ ട്രാൻസ്കണ്ടക്റ്റൻസിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല അതേസമയം നിങ്ങൾ വോൾട്ടേജ് M1 ലേക്ക് മാറ്റുകയാണെങ്കിൽ നിങ്ങൾ വിതരണ വോൾട്ടേജ് മാറ്റുകയാണെങ്കിൽ M1s വൈദ്യുത പ്രവാഹങ്ങൾ മാറും പകരം ഇത് 12 V ആയി മാറുകയാണെങ്കിൽ M1 ലെ കറന്റ് വർദ്ധിക്കും അതിനാൽ സപ്ലൈ വോൾട്ടേജിനോടുള്ള സെൻസിറ്റിവിറ്റി ഈ കേസിൽ പൂജ്യവും ആ സാഹചര്യത്തിൽ പൂജ്യമല്ലാത്തതുമായിരിക്കും അതിനാൽ സ്ഥിരമായ കറന്റ് സോഴ്സ് ലഭിക്കുന്നതിനേക്കാൾ ഇത് താഴ്ന്നതാണ് പക്ഷേ സ്ഥിരമായ VGS ഉള്ളതിനേക്കാൾ ഇത് മികച്ചതാണ് കറന്റ് സോഴ്സുകൾ ഒഴിവാക്കുക പ്രത്യേകിച്ചും ഡിസ്ക്റീറ്റ് സർക്യൂട്ടുകളുടെ കാര്യത്തിൽ സെൻസിറ്റിവിറ്റിയുടെ വിശകലനവും മറ്റും നിങ്ങൾക്ക് അസൈൻമെന്റ് പ്രശ്നങ്ങളിൽ നടപ്പിലാക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കാൾ എത്ര മോശമാണ് ഇത് എന്ന് വ്യക്തമായി മനസ്സിലാകും